ഇപ്പോൾ നമ്മൾ പ്രൈവസി എന്ന ടോപിക്കിൽ ആണെന്ന് നിങ്ങൾക്ക് അറിയാമല്ലോ നമ്മൾ ഇപ്പോൾ ട്രസ്റ്റ് ക്രെഡിബിലിറ്റി എന്നിവ എടുത്തുകഴിഞ്ഞു നിങ്ങളെല്ലാവർക്കും ഇപ്പോൾ ലിനക്സ് പൈത്തൺ എന്നിവയെക്കുറിച്ചുള്ള ചില കാര്യങ്ങൾ ട്വിറ്ററിൽ നിന്ന് എങ്ങനെ ഡേറ്റ കളക്ട് ചെയ്യാം ഡേറ്റ എങ്ങനെ സംഭരിക്കാംഡേറ്റ സംഭരിക്കാൻ ഏത് തരത്തിലുള്ള MySQL അന്വേഷണങ്ങളാണ് എഴുതേണ്ടത് തുടങ്ങിയ കാര്യങ്ങൾ നന്നായിട്ടറിയാം കഴിഞ്ഞ ആഴ്ചയിൽ വെസ്റ്റിൻ എല്ലാ യുഎസ് പൌരന്മാരെയും എങ്ങനെ 3 വിഭാഗങ്ങളായി തരംതിരിച്ചു എന്നതിനെക്കുറിച്ച് നമ്മൾ കണ്ടു ഫണ്ടമെന്റലിസ്റ് പ്രാഗ്മാറ്റിസ്റ് അൺകൺസേൺഡ് എന്നിവയാണ് അവ ഫണ്ടമെന്റലിസ്റ് 25 ശതമാനവും പ്രാഗ്മാറ്റിസ്റ് 60 ശതമാനവും അൺകൺസേൺഡ് 15 ശതമാനവുമാണ് യഥാർത്ഥത്തിൽ വ്യക്തിപരമായ വിവരങ്ങളൊന്നും നൽകാത്ത ആളുകളാണ് ഫണ്ടമെന്റലിസ്റ് സാഹചര്യം മനസ്സിൽ വച്ചുകൊണ്ട് പ്രാഗ്മാറ്റിസ്റ് സ്വകാര്യതയെക്കുറിച്ച് തീരുമാനമെടുക്കുന്നു വ്യക്തിഗത വിവരങ്ങൾ നൽകുകയും വ്യക്തിപരമായ വിവരങ്ങൾ വെളിപ്പെടുത്തുന്നതിന്റെ ഭാഗമാകുകയും ചെയ്യുന്ന അൺകൺസേൺഡ് എന്ന ഒരു കൂട്ടം ആളുകൾ അമേരിക്കയിൽ ഏകദേശം 15 ശതമാനമാണ് ഇന്ത്യയിലെ വലിയൊരു കൂട്ടം ജനങ്ങൾക്കിടയിൽ നിന്ന് ശേഖരിച്ച ചില വിവരങ്ങളെക്കുറിച്ച് കഴിഞ്ഞ തവണ ഞാൻ നിങ്ങളോട് ചില ചോദ്യങ്ങൾ ചോദിച്ചു ഞാൻ ചോദിച്ച ചോദ്യങ്ങളിലൊന്നാണ് നിങ്ങളുടെ ഓൺലൈൻ സോഷ്യൽ നെറ്റ്വർക്കിലെ പ്രത്യേകിച്ച് ഫേസ്ബുക്കിലെ നിങ്ങളുടെ വ്യക്തിഗത വിവരങ്ങളുടെ പ്രൈവസിയെക്കുറിച്ച് നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത് എന്ന് അതായത് ഫേസ്ബുക്കിനെക്കുറിച്ച് ഏറ്റവും കൂടുതൽ അതായത് 42 ശതമാനം വ്യക്തമാക്കിയത് പ്രൈവസി ക്രമീകരണങ്ങൾ അവരുടെ ഡേറ്റയെ പ്രൈവസി ലംഘനത്തിൽ നിന്നും സുരക്ഷിതമാക്കിയിരിക്കുന്നു എന്നാണ് ഞാൻ നിങ്ങളോട് ചോദിച്ച മറ്റൊരു ചോദ്യം നിങ്ങൾ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന ഓൺലൈൻ സോഷ്യൽ നെറ്റ്വർക്കിൽ അതായത് ഫേസ്ബുക്കിൽ നിങ്ങൾക്ക് സൌഹൃദ അഭ്യർത്ഥന ലഭിക്കുന്ന സാഹചര്യത്തിൽ ഇനിപ്പറയുന്നവരിൽ ആരെയാണ് നിങ്ങൾ സുഹൃത്തുക്കളായി ചേർക്കുന്നത് എന്നാണ് കൂടുതൽ ആളുകൾ പറഞ്ഞത് എതിർലിംഗത്തില്പെട്ട ആളുകൾ എന്നായിരുന്നു കഴിഞ്ഞ ഏതാനും ആഴ്ചകളിലെ ക്ലാസ്സുകളിലെ സംസാരങ്ങളിലൂടെ സോഷ്യൽ മീഡിയ ഉപയോഗിക്കുമ്പോഴുള്ള നിങ്ങളുടെ പെരുമാറ്റം മാറിയിരിക്കും എന്നും ഇത്തരം ചില സൌഹൃദ അഭ്യർത്ഥനകൾ നിങ്ങൾ സൂക്ഷ്മമായി നിരീക്ഷിക്കുന്നുണ്ടാവുമെന്നും അതിലൂടെ നിങ്ങൾക്ക് ലഭിക്കുന്ന ഏതെങ്കിലും സുഹൃത്ത് അഭ്യർത്ഥന എങ്ങനെ സ്വീകരിക്കും എങ്ങനെ നിഷേധിക്കും എന്നതിനെക്കുറിച്ചുള്ള ഒരു സംവിധാനം നിങ്ങൾ രൂപീകരിച്ചിട്ടുണ്ടാവും എന്ന് എനിക്കുറപ്പുണ്ട് ഇപ്പോൾ ഡേറ്റ പൊതുവായി ലഭ്യമാണ് അതുകൊണ്ട് ഡേറ്റ ഉപയോഗിക്കാൻ മടിക്കേണ്ടതില്ല കഴിഞ്ഞ തവണ ഞാൻ നിങ്ങളോട് അവസാനം ചോദിച്ച ചോദ്യമിതായിരുന്നു ഫെയ്സ്ബുക്ക് ട്വിറ്റർ എന്നിവയിൽ നിങ്ങൾക്കുള്ള പ്രൈവസി പ്രശ്നങ്ങൾ എന്തൊക്കെയാണ് നിങ്ങൾ എങ്ങനെയാണ് പ്രൈവസി നിർവ്വചിക്കുന്നത് നിങ്ങളിൽ ചിലർ വിവിധ ഫെയ്സ്ബുക്ക് പ്രൈവസി പ്രശ്നങ്ങളെക്കുറിച്ചോ ഫേസ്ബുക്ക് പ്രൈവസി പ്രശ്നങ്ങളെക്കുറിച്ചുള്ള നിങ്ങളുടെ സ്വന്തം ചോദ്യങ്ങളെക്കുറിച്ചോ ഫോറത്തിൽ പോസ്റ്റുചെയ്യുന്നത് കാണുന്നത് സന്തോഷകരമായി ഞാൻ കരുതുന്നു നമ്മൾ യഥാർത്ഥത്തിൽ ഫോറം കൂടുതൽ സജീവമാക്കണം കാരണം ആവർത്തിച്ചുള്ള ചില ചോദ്യങ്ങൾ ഉയർന്നുവരുന്നുണ്ടെന്ന് ഞാൻ കരുതുന്നു കഴിയുന്നത്ര ഉത്തരം നൽകാൻ ഞങ്ങൾ ശ്രമിക്കുന്നു പക്ഷേ അവ വീണ്ടും ആവർത്തിക്കുമ്പോൾ ഞങ്ങൾക്ക് യഥാർത്ഥത്തിൽ ഉത്തരം നൽകുന്നത് ഒഴിവാക്കാം ചോദ്യങ്ങൾ ചോദിക്കാൻ ഞാൻ ശക്തമായി ശുപാർശ ചെയ്യുന്നു ചോദ്യങ്ങൾ പോസ്റ്റുചെയ്യുന്നതിന് മുമ്പ് ഫോറം പരിശോധിക്കുക അതിനാൽ പ്രൈവസി എന്താണെന്ന് നമുക്ക് കുറച്ച് നോക്കാം തുടർന്ന് Facebook ലെ പ്രൈവസി സ്റ്റാറ്റസ് വിശകലനം ചെയ്യുന്നതിൽ ചില ഗവേഷണങ്ങളെക്കുറിച്ച് ഒരു ചെറിയ വിശദാംശം നൽകാം സ്വകാര്യതയെക്കുറിച്ച് മുമ്പ് നൽകിയ നിർവചനങ്ങളിലൊന്ന് പ്രൈവസി എന്നത് വളരെ സങ്കീർണമായ ഒരു മൂല്യമാണ് അതിനാൽ മത്സരാധിഷ്ഠിതവും പരസ്പരവിരുദ്ധവുമായ അളവുകളിൽ കുടുങ്ങുന്നു അങ്ങനെ അതിൽ പലതരത്തിലുള്ളതും വ്യത്യസ്തവുമായ അർത്ഥങ്ങൾ ഉൾക്കൊള്ളുന്നു ചിലപ്പോൾ ഇത് ഉപയോഗപ്രദമായി അഭിസംബോധന ചെയ്യാൻ കഴിയുമോ എന്ന് കരുതി ഞാൻ നിരാശനാകും അതുകൊണ്ട് റോബർട്ട് തന്റെ പ്രൈവസിയുടെ മൂന്ന് ആശയങ്ങൾ എന്ന പുസ്തകത്തിൽ പ്രൈവസിയെക്കുറിച്ച് സംസാരിക്കുന്നു എന്നാൽ നിർവചനങ്ങളിലുള്ള പ്രൈവസി യഥാർത്ഥത്തിൽ ചിന്തിച്ചതാണെന്ന് ഞാൻ കരുതുന്നു ഞാൻ ഉദ്ദേശിക്കുന്നത് നിങ്ങൾക്ക് സ്വകാര്യത എന്താണെന്ന് നോക്കുകയാണെങ്കിൽ നിങ്ങൾ എന്തിനാണ് ഈ പ്രഭാഷണം കേൾക്കുന്നത് എന്നതും നിങ്ങളുടെ സ്കൂളിലെ സ്വകാര്യത വീട്ടിലെ സ്വകാര്യത ജോലി സ്ഥലത്തെ സ്വകാര്യത എന്നിവയും വളരെ വ്യത്യസ്തമാണ് വിവിധ സാഹചര്യങ്ങളിൽ ഒരു പ്രത്യേക വ്യക്തിയുടെ പ്രൈവസി എന്താണെന്ന് നിർവചിക്കുന്നത് വളരെ ബുദ്ധിമുട്ടാണ് അതാണ് ഈ നിർവചനം യഥാർത്ഥത്തിൽ ക്യാപ്ചർ ചെയ്യാൻ ശ്രമിക്കുന്നത് പരസ്പരവിരുദ്ധമായ അളവുകൾ അങ്ങനെ കുടുങ്ങിയതും മത്സരിക്കുന്നതും പരസ്പരവിരുദ്ധവുമായ അളവുകൾ അടിസ്ഥാനപരമായി പ്രൈവസി എപ്പോഴും വിവരങ്ങളുടെ നിയന്ത്രണത്തെക്കുറിച്ചാണ് സംസാരിക്കുന്നത് ഇവിടെ അലൻ വെസ്റ്റിന്റെ 1967ലെ വ്യക്തികളുടെ അവകാശവാദമാണ് സ്വകാര്യത എന്ന പുസ്തകത്തിൽ പ്രൈവസിയെക്കുറിച്ചുള്ള രണ്ട് നിർവചനങ്ങൾ ഉണ്ട് സ്വകാര്യത എന്നത് വ്യക്തികളുടെയോ ഗ്രൂപ്പുകളുടെയോ സ്ഥാപനങ്ങളുടെയോ അവരെക്കുറിച്ചുള്ള വിവരങ്ങൾ എപ്പോൾ എങ്ങനെ എത്രത്തോളം മറ്റുള്ളവരെ അറിയിക്കണമെന്നുള്ള അവകാശവാദമാണ് അതിനാൽഅടിസ്ഥാനപരമായി തങ്ങളെത്തന്നെ നിർണ്ണയിക്കാൻ പോകുകയാണ് എനിക്ക് എന്റെ എത്രത്തോളം വിവരങ്ങൾ യഥാർത്ഥത്തിൽ മറ്റുള്ളവരുമായി പങ്കിടാൻ കഴിയും ഓരോ വ്യക്തിയും വ്യക്തിപരമായ ക്രമീകരണ പ്രക്രിയയിൽ തുടർച്ചയായി ഏർപ്പെടുന്നു അതിൽ അവൻ വെളിപ്പെടുത്തലിനും ആശയവിനിമയത്തിനുമുള്ള ആഗ്രഹവുമായി പ്രൈവസിക്കുള്ള ആഗ്രഹത്തെ സന്തുലിതമാക്കുന്നു എന്നെക്കുറിച്ച് ഞാൻ എത്രമാത്രം വെളിപ്പെടുത്തണം എന്നെക്കുറിച്ചുള്ള വിവരങ്ങൾ എത്രത്തോളം അജ്ഞാതമാക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു എന്നെക്കുറിച്ച് എത്രമാത്രം വെളിപ്പെടുത്താൻ ഞാൻ ആഗ്രഹിക്കുന്നു എന്നതിന്റെ അടിസ്ഥാനത്തിലാണ് സ്വകാര്യത എന്ന വാക്ക് നിർവ്വചിക്കപ്പെട്ടിരിക്കുന്നതും നിങ്ങൾ യഥാർത്ഥത്തിൽ പ്രചരിപ്പിക്കുന്ന വിവരങ്ങൾ നിയന്ത്രിക്കുന്നതും അതിനാൽ നിർവ്വചിക്കാൻ വളരെ ബുദ്ധിമുട്ടുള്ള ഒരു നിർവചന പ്രൈവസി നിങ്ങൾക്ക് ലഭിക്കുമെന്ന് എനിക്ക് ഉറപ്പുണ്ട് മാത്രമല്ല നൽകിയിരിക്കുന്ന എല്ലാ സന്ദർഭങ്ങളിലും ഏതൊരു വ്യക്തിക്കും പ്രൈവസി പ്രതീക്ഷകളുടെ പട്ടിക കൊണ്ടുവരുന്നത് വളരെ ബുദ്ധിമുട്ടാണ് വിവരങ്ങളുടെ നിയന്ത്രണം സംബന്ധിച്ച പ്രൈവസിയാണ് അവർ കർശനമായി അറിയിക്കുന്നത് ഇത് ചിലപ്പോൾ ഒരു ഗ്രൂപ്പ് വിവരമായിരിക്കാം ആശയം കൂടുതലോ കൂട്ടായ സമൂഹമോ ആണെന്നതിനാൽ ഒരു വ്യക്തിയുടെ പ്രൈവസിയ്ക്ക് പകരം ഒരു ഗ്രൂപ്പിന്റെ പ്രൈവസിയെക്കുറിച്ചാണ് നമ്മൾ പൊതുവെ സംസാരിക്കുന്നത് വ്യക്തികളുടെ പ്രൈവസി വിവരങ്ങൾ കൂടുതലുള്ള സമൂഹമായതിനാൽ വ്യക്തികളുടെ പ്രൈവസി ഗ്രൂപ്പിന്റെ പ്രൈവസിയെക്കാൾ കൂടുതൽ സുരക്ഷിതമാണ് ആളുകൾ കൊണ്ടുവന്ന പ്രൈവസിയുടെ ചില രൂപങ്ങൾ ഇൻഫർമേഷൻ പ്രൈവസി കമ്മ്യൂണിക്കേഷൻ പ്രൈവസി ടെറിട്ടോറിയൽ പ്രൈവസി ശാരീരിക പ്രൈവസി എന്നിവയാണ് പ്രത്യേകിച്ചും ഇതുപോലുള്ള കോഴ്സുകളിൽ നമ്മൾ പ്രൈവസിയെക്കുറിച്ച് സംസാരിക്കുമ്പോൾ മിക്കപ്പോഴും അത് ഇൻഫർമേഷൻ പ്രൈവസി എന്നും പ്രത്യേകിച്ച് ഇന്റർനെറ്റ് പ്രൈവസിഎന്നും അറിയപ്പെടുന്നു ടെലഫോണുകളുംമറ്റ് ആശയവിനിമയങ്ങളും കമ്മ്യൂണിക്കേഷൻ പ്രൈവസിയിൽ വരുന്നതാണ് ടെറിട്ടോറിയൽ സ്വകാര്യത എന്റെ താമസസ്ഥലം എന്റെ വീട് എന്റെ നഗരം എന്റെ രാജ്യം ചുറ്റുമുള്ള വിഷയങ്ങൾ എന്നിവയെക്കുറിച്ചാണ് ശരീരത്തിന്റെ സ്വകാര്യത സ്വയം സംബന്ധിച്ചുള്ളതാണ് അതിനാൽ എന്റെ സ്വന്തം ശാരീരിക സാന്നിധ്യത്തെക്കുറിച്ചുള്ള വിവരങ്ങൾ യഥാർത്ഥത്തിൽ പ്രൈവസി എന്ന ആശയത്തിലും ചർച്ച ചെയ്യപ്പെടുന്നു ഉദാഹരണത്തിന് ഒരു സ്വകാര്യ സിസിടിവി ക്യാമറ യഥാർത്ഥത്തിൽ ശരീരത്തിന്റെ പ്രൈവസിയിന്മേലുള്ള കടന്നുകയറ്റമാണ് ഓൺലൈൻ സോഷ്യൽ നെറ്റ്വർക്കുകളിലെ പ്രൈവസി വിശകലനം ചെയ്യുന്നതിനായി നടത്തിയ ചില പ്രത്യേക പഠനങ്ങൾ നമുക്ക് നോക്കാം പഠനത്തെക്കുറിച്ചുള്ള അവസാന ദിവസത്തെ സ്ലൈഡുകളുടെ റെഫെറൻസിലൂടെ ഞാൻ നിങ്ങളെ കൊണ്ടുപോകാം എന്നാൽ അവർ ചെയ്ത കാര്യങ്ങൾ അവർ കണ്ടെത്തിയ കാര്യങ്ങൾ വിവരങ്ങൾ എത്രമാത്രം വെളിപ്പെടുത്തുന്നു എന്നിവയിലേക്കാണ് ഞാൻ നിങ്ങളെ നയിക്കുന്നത് ഫെയ്സ്ബുക്കിന്റെയും സോഷ്യൽ നെറ്റ്വർക്കുകളുടെയും പൊതുവായി ലഭ്യമായ വിവരങ്ങളുടെയും പശ്ചാത്തലത്തിൽ പഠനം എത്രമാത്രം മികച്ചതായിരുന്നു സ്വകാര്യത എങ്ങനെയാണ് പഠിക്കുന്നത് എന്നതിലേക്കും നമുക്ക് പോകാം സോഷ്യൽ നെറ്റ്വർക്കുകളിൽ തന്നെ അപ്ലോഡ് ചെയ്ത ചിത്രങ്ങളെക്കുറിച്ചുള്ള ചില പശ്ചാത്തലം നോക്കാം 2000 ൽ 100 ബില്യൺ ഫോട്ടോകൾ ലോകമെമ്പാടും ചിത്രീകരിച്ചു 2010 ൽ പ്രതിമാസം 2 5 ബില്യൺ ഫോട്ടോകൾ ഫെയ്സ്ബുക്ക് ഉപയോക്താക്കൾ മാത്രം അപ്ലോഡ് ചെയ്തു അതേസമയം 1 മിനിറ്റിൽ സോഷ്യൽ നെറ്റ്വർക്കുകളിൽ അപ്ലോഡുചെയ്ത വിവരങ്ങളെക്കുറിച്ച് ഒരു ഇൻഫോഗ്രാഫിക് കാണിച്ച ആദ്യ ലെക്ചർ 1 നിങ്ങൾ ഓർക്കുന്നുവെങ്കിൽ ഫേസ്ബുക്ക് ഇൻസ്റ്റാഗ്രാം ഫ്ലിക്കർ സ്നാപ്ചാറ്റ് വാട്ട്സ്ആപ്പ് എന്നിവയിൽ എല്ലാംകൂടി ഒരുമിച്ച് 1 8 ബില്യൺ ഫോട്ടോകൾ ദിവസവും അപ്ലോഡ് ചെയ്യുന്നതായി നമ്മൾ കണ്ടു അതിനാൽ സോഷ്യൽ നെറ്റ്വർക്കുകളിൽ യഥാർത്ഥത്തിൽ അപ്ലോഡുചെയ്ത ധാരാളം ചിത്രങ്ങളും ധാരാളം വിവരങ്ങളും ഉണ്ട് ഫേസ്ബുക്ക് മൈക്രോസോഫ്റ്റ് ഗൂഗിൾ ആപ്പിൾ തുടങ്ങിയ കമ്പനികൾ കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി ധാരാളം ഫേസ്റക്കഗ്നിഷൻ കമ്പനികൾ സ്വന്തമാക്കിയിട്ടുണ്ട് എല്ലാത്തരം സോഷ്യൽ നെറ്റ്വർക്കുകളിലും ഓൺലൈൻ സർവീസുകളിലും അപ്ലോഡ് ചെയ്യുന്ന ചിത്രങ്ങളിലെ മുഖങ്ങൾ തിരിച്ചറിയാനും പഠിക്കാനും മനസ്സിലാക്കാനും ഈ സാങ്കേതികവിദ്യകൾ ഉപയോഗിക്കാനാവും ഓൺലൈൻ സോഷ്യൽ നെറ്റ്വർക്കുകളിൽ എന്താണ് സംഭവിക്കുന്നതെന്ന് പഠിക്കാൻ ഈ ചിത്രങ്ങളിൽ മെഷീൻ ലേണിംഗ് ആഴത്തിലുള്ള പഠനം ആശയങ്ങൾ എന്നിവ പ്രയോഗിക്കുന്നത് വളരെ വളരെ പ്രാധാന്യമർഹിക്കുന്നു ഓൺലൈനിൽ ചിത്രങ്ങളുടെ പ്രാധാന്യത്തെക്കുറിച്ച് ഞാൻ അടുത്തിടെ ഒരു ബ്ലോഗും എഴുതി സോഷ്യൽ നെറ്റ്വർക്കുകൾ ഈ ലെക്ചറ്റിനു ശേഷം ഞാൻ അത് ഫോറത്തിൽ പങ്കുവെക്കും അപ്ലോഡുചെയ്ത ഈ ചിത്രങ്ങളുടെയും വ്യക്തികളെക്കുറിച്ചുള്ള പ്രൈവസിയുടെയും അടിസ്ഥാനത്തിൽ നിലവിൽ എന്താണ് സംഭവിക്കുന്നതെന്ന് നിങ്ങൾ ശരിക്കും നോക്കുകയാണെങ്കിൽ ഓൺലൈൻ സോഷ്യൽ നെറ്റ്വർക്കുകളിലൂടെ പൊതുവായ സ്വയം വെളിപ്പെടുത്തലുകൾ സംഭവിക്കുന്നു ഞാൻ വളരെ പ്രധാനപ്പെട്ട സ്ഥലങ്ങളിലൊന്നിൽ നിന്നുകൊണ്ട് ഒരു സെൽഫി എടുക്കുന്നു തൽക്കാലം നമുക്ക് ഡൽഹി എന്ന് എടുക്കാം ഞാൻ ഈ ചിത്രം അപ്ലോഡുചെയ്യുന്നു ഞാൻ ഡൽഹിയിലാണെന്ന് നിങ്ങൾക്കറിയാം അല്ലെങ്കിൽ താജ്മഹലിന് അടുത്ത് നിന്നു കൊണ്ട് ഒരു ചിത്രം എടുത്ത് എന്റെ ഫേസ്ബുക്ക് അക്കൌണ്ടിൽ അപ്ലോഡ് ചെയ്താൽ ഞാൻ ഇപ്പോൾ താജ്മഹലിലേക്കാണ് പോയതെന്ന് നിങ്ങൾക്കറിയാം യഥാർത്ഥത്തിൽ please rob me dot com എന്നൊരു സൈറ്റ് ഉണ്ടായിരുന്നു ഈ വെബ്സൈറ്റ് ഇപ്പോൾ സജീവമാണെന്ന് ഞാൻ കരുതുന്നില്ല please rob me dot കോം എന്ന ഈ വെബ്സൈറ്റിൽ അവർ ചെയ്തത് ഡൽഹിയിൽ നിന്ന് നിർമിച്ച ഒരു ട്വിറ്റര് അക്കൌണ്ട് ഉണ്ടെങ്കിൽ അതിൽ ചെന്നൈയിലെയോ ഹൈദെരാബാദിലെയോ കാലിഫോര്ണിയയിലെയോ കാലാവസ്ഥയെക്കുറിച്ച് പോസ്റ്റ് ചെയ്യാം ഈ പോസ്റ്റ് യഥാർത്ഥത്തിൽ എടുത്ത് please rob me dot com ൽ പോസ്റ്റ് ചെയ്തുകൊണ്ട് ഈ അക്കൌണ്ട് ഡൽഹിയിൽ ഉള്ളതാണെന്നും ഇപ്പോൾ പറയുന്നത് കാലിഫോർണിയയിലെ കാലാവസ്ഥയെക്കുറിച്ചാണെന്നും പറയുകയാണെങ്കിൽ നിങ്ങൾ ഇപ്പോൾ വീട്ടിലില്ല എന്ന മനസിലാക്കാം നിങ്ങൾ വീട്ടിലില്ലാത്തതിനാൽ നിങ്ങളുടെ വീടുകൾ പൂട്ടിയിരിക്കണം ഇത് വളരെയധികം ശ്രദ്ധിക്കപ്പെട്ടു പക്ഷേ സോഷ്യൽ നെറ്റ്വർക്കിന്റെ ഉപയോക്താക്കൾ അവരുടെ ലൊക്കേഷനെക്കുറിച്ച് സ്വയം വെളിപ്പെടുത്തുന്ന വിവരങ്ങൾ ഉപയോഗപ്പെടുത്താൻ അവർ യഥാർത്ഥത്തിൽ തിരഞ്ഞെടുത്തത് രസകരമായ ഒരു ആശയമാണെന്ന് ഞാൻ കരുതുന്നു ഓൺലൈൻ സോഷ്യൽ നെറ്റ്വർക്കുകളിലൂടെ ഒരു സ്വയം വെളിപ്പെടുത്തൽ എന്ന നിലയിലും ട്വിറ്റർ ഫേസ്ബുക്ക് ഇൻസ്റ്റാഗ്രാം മറ്റ് നെറ്റ്വർക്കുകൾ എന്നിവയിലെ വിവരങ്ങൾ സ്വയം വെളിപ്പെടുത്തുന്നതുമൂലവും നിരവധി പ്രശ്നങ്ങളുണ്ട് ഒരു വശത്ത് പൊതുവിവരങ്ങളിൽ ഈ വർദ്ധനവ് നടക്കുന്നത് തുടരുന്നു സമാന്തരമായി ഫേസ് റെക്കഗ്നിഷൻന്റെ കൃത്യതയും വർദ്ധിക്കുന്നു നേരത്തെയുള്ള കൃത്യത ഇപ്പോളുള്ള ടെക്നിക്കുകളും സാങ്കേതികവിദ്യകളും ഉപയോഗിച്ച് മെച്ചപ്പെടുത്തി പ്രത്യേകിച്ചും നിങ്ങൾ ഫേസ്ബുക്ക് പോലുള്ള നെറ്റ്വർക്കുകൾ നോക്കിയാൽ അത് വളരെ ഉയർന്നതാണ് കാരണം നിങ്ങൾ അപ്ലോഡുചെയ്യുന്ന ചിത്രത്തിൽ ഒരു പ്രത്യേക മുഖം കണ്ടെത്താൻ അവർ ശ്രമിക്കുന്നു യഥാർത്ഥത്തിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾ മാത്രമായിരിക്കാം അതിൽ മിക്കപ്പോഴും നിങ്ങൾ ഇതിനകം ബന്ധപ്പെട്ടിട്ടുള്ള സുഹൃത്തുക്കളുമായി ആണ് ചിത്രങ്ങൾ എടുക്കാൻ പോകുന്നത് അല്ലെങ്കിൽ അവർ ഒന്നിച്ച് ആയിരിക്കാം അല്ലെങ്കിൽ ഇവിടെ നിന്ന് ഒന്നര മണിക്കൂർ അല്ലെങ്കിൽ രണ്ട് മണിക്കൂർ അകലെയായിരിക്കാം അതിനാൽ ഇത് ഒരു വശത്ത് സംഭവിക്കുന്നു കൂടാതെ ഇത് ക്ലൌഡിന്റെ മുഴുവൻ ആശയമാണ് ക്ലൌഡിൽ വിവരങ്ങൾ സംഭരിക്കുന്നതും എളുപ്പത്തിൽ കണക്കു കൂട്ടാൻ കഴിയുമെന്നതും ഇത്തരം വിശകലനം നടത്തുന്നതിനുള്ള കമ്പ്യൂട്ടിംഗ് ചെലവ് കുറക്കുകയും ചെയ്യുന്നു നാലാമത്തെ അളവിൽ ഈ ഉപയോക്താക്കളെ തിരിച്ചറിയുന്നത് അവർ ആരാണ് അവർ ഏതുതരം വിവരങ്ങളാണ് വിലയിരുത്തുന്നത് എന്നതിനെക്കുറിച്ചുള്ള അറിവ് മെച്ചപ്പെടുന്നു എന്നതാണ് പ്രശ്നം k anonymity പോലുള്ള ആശയങ്ങൾ 15 അല്ലെങ്കിൽ 20 വർഷങ്ങൾക്ക് മുമ്പാണ് വന്നത് എന്നാൽ ഉപയോക്താക്കളെ തിരിച്ചറിയുന്നതിനും മുഖങ്ങൾ തിരിച്ചറിയുന്നതിനും ഉപയോക്താക്കളെക്കുറിച്ചുള്ള വിവരങ്ങൾ തിരിച്ചറിയുന്നതിനും സോഷ്യൽ നെറ്റ്വർക്കിലെ ആളുകളെ വീണ്ടും തിരിച്ചറിയുന്നതിനും വികസിപ്പിച്ച ചില കൂടുതൽ പുരോഗമനവിദ്യകൾ മറ്റ് നെറ്റ്വർക്കുകളിലെ ആളുകളെ പെട്ടന്ന് തിരിച്ചറിയുന്നു സ്വയം വെളിപ്പെടുത്തൽ വർദ്ധിപ്പിക്കൽ മുഖം തിരിച്ചറിയൽ വിദ്യകളുടെ കൃത്യത മെച്ചപ്പെടുത്തൽ ക്ലൌഡ് സർവ്വവ്യാപിയായ കമ്പ്യൂട്ടിംഗ് എന്നിവയുടെ മുഴുവൻ ആശയവും ഉപയോക്താക്കളെ വീണ്ടും തിരിച്ചറിയുന്നതിനുള്ള സാങ്കേതികതകളും കൂടുതൽ മെച്ചപ്പെടുകയും ചെയ്യുന്ന നാല് വ്യത്യസ്ത തരം കാര്യങ്ങളാണ് അവ ഒഴിവാക്കുന്നത് ആളുകൾക്ക് ചോദിക്കാവുന്ന ഒരു പ്രധാന ചോദ്യവും രസകരമായ ഒരു ചോദ്യവുമാണ് ഒരാൾക്ക് പൊതുവായി ലഭ്യമായ ഓൺലൈൻ സോഷ്യൽ നെറ്റ്വർക്ക് ഡേറ്റയും നിലവിലുള്ള ഓഫ് ഷെൽഫ് ഫെയ്സ് റെക്കഗ്നിഷൻ ടെക്നോളജിയുമായി ബന്ധിപ്പിക്കാൻ കഴിയുമോ എന്നത് കൂടാതെ വ്യക്തികളെ പുനർനിർണയിക്കാനും സെൻസിറ്റീവ് വിവരങ്ങൾ കണ്ടെത്താനും കഴിയുമോ എന്നതും അതിനാൽ അടുത്ത ഡെക്ക് സ്ലൈഡുകളിൽ നമ്മൾ സംസാരിക്കുന്ന ചോദ്യമാണിത് അതായത് ഞാൻ ഫേസ്ബുക്കിൽ അപ്ലോഡ് ചെയ്തതും ഞാൻ ട്വിറ്ററിൽ അപ്ലോഡ് ചെയ്തതുമായ പൊതുവായി ലഭ്യമായ ചില വിവരങ്ങൾ നമുക്ക് എടുക്കാൻ കഴിയുമോ എന്ന് ടെൻസർഫ്ലോ പോലുള്ള ചില ടൂൾസ് ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾക്ക് അത് ഓഫ് ഷെൽഫ് ഫെയ്സ് റെക്കഗ്നിഷൻ ടെക്നോളജിയുമായി ബന്ധിപ്പിക്കാൻ കഴിയുമോ അത് ഞാൻ പിന്നീട് സ്ലൈഡുകളിൽ സൂചിപ്പിക്കാം അടിസ്ഥാനം തിരിച്ചറിയുന്നതിനും ഈ വ്യക്തിയെ യഥാർത്ഥത്തിൽ വീണ്ടും തിരിച്ചറിയുന്നതിനും അല്ലെങ്കിൽ ഉപയോക്താക്കളെക്കുറിച്ചുള്ള സെൻസിറ്റീവ് വിവരങ്ങൾ കണ്ടെത്തുന്നതിനും ഈ വിദ്യകൾ ഉപയോഗിക്കുക നമ്മൾ ഇപ്പോൾ സംസാരിക്കുന്ന ചോദ്യം അതാണ് ഇതാ ഒരു ലക്ഷ്യം നിങ്ങൾക്ക് തിരിച്ചറിയാൻ കഴിയുന്ന ഏതൊരു വെബ്സൈറ്റും മാച്ച് ഡോട്ട് കോം ഷാദി ഡോട്ട് കോം ഫ്ലിക്കറിൽ നിന്നുള്ള ഫോട്ടോകൾ സിസിടിവി ഫീഡുകൾ അതുപോലുള്ള കാര്യങ്ങൾ ഏതുമാകാം തിരിച്ചറിയാൻ കഴിയാത്തതോ വളരെ ബുദ്ധിമുട്ടുള്ളതോ ആയ ഈ ഡബ്സൈറ്റിൽ അവർ ആരാണെന്ന് വെളിപ്പെടുത്താത്തതോ ആകാം ഈ അറിയപ്പെടാത്ത സോഴ്സുകൾ ഉപയോഗിക്കുക എന്നതാണ് ലക്ഷ്യം ഒന്നുകിൽ നിങ്ങൾക്ക് തിരിച്ചറിയാൻ കഴിയാത്ത പേരുകളോ ഓമനപ്പേരുകളോ അവർക്ക് ഉണ്ടായിരിക്കാം അതുകൊണ്ട് നിങ്ങൾക്ക് ആ പ്രത്യേക വ്യക്തിയെ തിരിച്ചറിയാനോ വീണ്ടും തിരിച്ചറിയാനോ കഴിയില്ല ഫെയ്സ്ബുക്കിലുള്ള ഉറവിടങ്ങൾ തിരിച്ചറിയുന്നതിനായി ബന്ധിപ്പിച്ചിട്ടുള്ള ഈ ഉറവിടങ്ങൾ ഷാദി ഡോട്ട് കോം ഫ്ലിക്കർ ഫേസ്ബുക്ക് എന്നിവയിൽ നിന്നുള്ള ചിത്രങ്ങൾ നമുക്ക് എടുക്കാമെങ്കിൽ ഞാൻ അങ്ങനെയാണ് എന്ന് ഞാൻ യഥാർത്ഥത്തിൽ വെളിപ്പെടുത്തും ലിങ്ക്ഡിനിൽ സർക്കാർ വെബ്സൈറ്റിലും ലഭ്യമായ മറ്റ് സേവനങ്ങളിലും ഞാൻ ഇത് അങ്ങനെ തന്നെ ഇടും ഷാദി ഡോട്ട് കോം പോലുള്ള തിരിച്ചറിയപ്പെടാത്ത ഉറവിടങ്ങൾ ഏതാണ് അങ്ങനെയാണ് ഞാൻ അങ്ങനെ വെളിപ്പെടുത്തുന്നത് കൂടാതെ പൊന്നുരംഗം കുമാരഗുരു എന്ന എന്റെ അക്കൌണ്ടിൽ യഥാർത്ഥത്തിൽ ഒരു ചിത്രം ഞാൻ അപ്ലോഡ് ചെയ്യുന്നുവ്യക്തിയുടെ സെൻസിറ്റീവ് വിവരങ്ങൾ ലഭിക്കാൻ നമുക്ക് ഇവ രണ്ടും ഒരുമിച്ച് ചേർക്കാമോ ഉദാഹരണത്തിന് ലിംഗഭേദം ഉദാഹരണത്തിന് സാമൂഹിക സുരക്ഷാ നമ്പർ ഉദാഹരണത്തിന് ആധാർ കാർഡ് നമ്പർ അതുപോലുള്ള വിവരങ്ങൾ നിങ്ങൾക്ക് ഇത് ഒരുമിച്ച് ചേർക്കാനും കുറച്ച് വ്യക്തിഗത വിവരങ്ങൾ നേടാനും കഴിയുമെങ്കിൽ ഇത് വളരെ മോശമായിരിക്കും അതിനാൽ നമ്മുടെ അടുത്ത സ്ലോട്ടുകളിൽ നമ്മൾ പഠിക്കുന്നത് അതാണ് ഈ വിഷയത്തിൽ k anonymity എന്ന വാക്ക് കണ്ടെത്തിയ ലതന്യ സ്വീനി നടത്തിയ അസാധാരണമായ ചില പ്രവർത്തനങ്ങളെക്കുറിച്ചുള്ള വളരെ വിശാലമായ പഴയ കാഴ്ചപ്പാട് നിങ്ങൾക്ക് നൽകാം അവിടെ അവൾ യഥാർത്ഥത്തിൽ മെഡിക്കൽ ഡാറ്റ എടുക്കുകയും പൊതുവായി ലഭ്യമായ വോട്ടർ പട്ടികയുമായി ബന്ധിപ്പിക്കുകയും ചെയ്തു നിങ്ങൾ മെഡിക്കൽ ഡാറ്റ പരിശോധിച്ചാൽ അവൾക്ക് വംശീയത സന്ദർശന തീയതി രോഗ നിർണയം നടപടിക്രമം മരുന്ന് രോഗി അടച്ച മൊത്തം ചാർജുകൾ എന്നിവയുണ്ട് പേര് വിലാസം രജിസ്റ്റർ ചെയ്ത തീയതി അഫിലിയേഷൻ പാർട്ടി അവസാനം വോട്ട് ചെയ്ത തീയതി ഇവയും ലഭിക്കും വോട്ടർ പട്ടികയിൽ നിന്നും മെഡിക്കൽ ഡാറ്റയിൽ നിന്നും ഈ വിവരങ്ങൾ എടുക്കുമ്പോൾ യഥാർത്ഥത്തിൽ പിൻ കോഡ് ജനനത്തീയതി ലിംഗഭേദം എന്നിവ രണ്ടിലും അവർ സാധാരണമായ സിപ് കോഡ് അവൾ കണ്ടെത്തി അവൾക്ക് ജനനദിവസവും ലിംഗഭേദവും നിർമ്മിച്ച സമ്പ്രദായം നിങ്ങൾ നൽകിയാൽ അവൾക്ക് ധാരാളം യുഎസ് പൌരന്മാരെ അദ്വിതീയമായി തിരിച്ചറിയാൻ കഴിയും k anonymity എന്ന് വിളിക്കപ്പെടുന്ന ഒരു ആശയം അതാണ് നിർമ്മിച്ചിരിക്കുന്നത് എന്നാൽ അവൾ എടുത്തുകാണിച്ച പ്രശ്നം ഈ രണ്ട് വ്യത്യസ്ത സെറ്റ് ഡാറ്റ സ്വതന്ത്ര മെഡിക്കൽ ഡാറ്റയും വോട്ടർ ഡാറ്റയും കൊണ്ടുവരുന്നതിലൂടെ നിങ്ങൾക്ക് ഉപയോക്താക്കളെ അദ്വിതീയമായി വീണ്ടും തിരിച്ചറിയാൻ കഴിയും എന്നതാണ് ഒന്നാം പരീക്ഷണത്തിൽ അവർ യഥാർത്ഥത്തിൽ ഓൺലൈൻ ഡാറ്റയെ ഓൺലൈൻ ഡാറ്റയുമായി ബന്ധിപ്പിച്ചിരിക്കുന്നു ഫേസ്ബുക്കിൽ നിന്ന് പൊതുവായി ലഭ്യമായ ചിത്രങ്ങൾ അവർ രസകരമായി ഖനനം ചെയ്തെടുത്ത് യുഎസിലെ ഏറ്റവും പ്രശസ്തമായ ഡേറ്റിംഗ് സൈറ്റുകളിലൊന്നിൽ അവർ പ്രൊഫൈലുകൾ പുനർനിർണയിക്കാൻ പോകുന്നു മുഖം തിരിച്ചറിയുന്ന ഉപകരണമായ പിറ്റ്പാറ്റ് ഡോട്ട് കോം എന്ന ഈ ടൂൾ അവർ ഉപയോഗിച്ചു പഠനം നടത്തിയ ശേഷം ഉപകരണം യഥാർത്ഥത്തിൽ ഗൂഗിൾ ഏറ്റെടുത്തു അത് ഫേസ്റെക്കഗ്നിഷന് ഉപയോഗിക്കുന്നു നിങ്ങൾക്ക് ഇപ്പോൾ ടെൻസോർഫ്ലോ ഉപയോഗിക്കാം മെഷീൻ ലേണിംഗ് ടെക്നിക്കുകൾക്കായുള്ള ഒരു ഓപ്പൺ സോഴ്സ് ലൈബ്രറിയാണ് ടെൻസർഫ്ലോ ടെൻസർഫ്ലോ പര്യവേക്ഷണം ചെയ്യുന്നതും അത് എങ്ങനെ പ്രവർത്തിക്കുന്നുവെന്നും ടെൻസർ ഫ്ലോയ്ക്കുള്ളിൽ ലഭ്യമായ ലൈബ്രറികൾ എന്താണെന്നും ദയവായി പരിഗണിക്കുക ഞാൻ ആദ്യം പറഞ്ഞതുപോലെയാണ് അവർ ഉപയോഗിച്ച ഡാറ്റ അവർ തിരിച്ചറിഞ്ഞ ഡാറ്റ എടുത്തു അവർ യുഎസിലെ ഒരു നഗരത്തിൽ നിന്ന് ഫെയ്സ്ബുക്ക് പ്രൊഫൈലുകൾ ഡൌൺലോഡ് ചെയ്തു നിങ്ങൾക്ക് ഫെയ്സ്ബുക്ക് ഡാറ്റ ശേഖരണത്തെക്കുറിച്ച് അറിയാവുന്നതാണല്ലോ ഇപ്പോൾ നിങ്ങൾക്ക് ഒരു പ്രത്യേക നഗരത്തിൽ നിന്ന് ഡാറ്റ ശേഖരിക്കാനാകും അവർ ശേഖരിച്ച പ്രൊഫൈലുകൾ ഏകദേശം 270000 ആയിരുന്നു ഏകദേശം 274000 ചിത്രങ്ങൾ ശേഖരിച്ചു കണ്ടെത്തിയ മുഖങ്ങൾ ഏകദേശം 110000 മുഖങ്ങളായിരുന്നു തിരിച്ചറിഞ്ഞ ഡേറ്റ സെറ്റിൽ അവരുടെ കൈവശമുള്ള ഡേറ്റയാണിത് ഇവിടെയാണ് നിങ്ങൾക്ക് ഇവയാണ് പേരുകൾ എന്ന് യഥാർത്ഥത്തിൽ പറയാൻ കഴിയുക ഈ ചിത്രങ്ങളുമായി ബന്ധിപ്പിച്ചിട്ടുള്ള പ്രൊഫൈലുകൾ ഇവയാണ് തിരിച്ചറിയാത്ത ഡാറ്റ അവർ ജനപ്രിയ ഡേറ്റിംഗ് വെബ്സൈറ്റുകളിൽ ഒന്നിലെ ചിത്രങ്ങൾ ഡൌൺലോഡ് ചെയ്തു അതിനാൽ ആദ്യം തിരിച്ചറിഞ്ഞതിനെ മാറ്റിവെച്ചിട്ട് നമുക്ക് തിരിച്ചറിയപ്പെടാത്തവ യെക്കുറിച്ച് സംസാരിക്കാം അതായത് സിസിടിവി ക്യാമറ പൊതുവായി ലഭ്യമായ വിവരങ്ങൾ അല്ലെങ്കിൽ മാച്ച് ഡോട്ട് കോം ഷാദി ഡോട്ട് കോം എന്നിവ അവരുടെ ഐഡന്റിറ്റികൾ സംരക്ഷിക്കുന്നതിനായി അവരുടെ പ്രൊഫൈലുകളും ഓമനപ്പേരുകളും അവർ ഡൌൺലോഡ് ചെയ്തു തീർച്ചയായും അവർ പേരുകൾ വെളിപ്പെടുത്താൻ പോകുന്നില്ല അക്കൌണ്ടുകൾക്ക് യഥാർത്ഥത്തിൽ ഓമനപ്പേരുകളും ഉണ്ടായിരിക്കാം യഥാർത്ഥത്തിൽ പ്രൊഫൈൽ തിരിച്ചറിയാൻ ഈ വെബ്സൈറ്റുകളിൽ നിന്ന് ഡൌൺലോഡ് ചെയ്ത ഫോട്ടോകൾ ഉപയോഗിക്കാം കണക്ഷൻ ഉചിതമാക്കുന്നതിന് തിരയലിനായി അവർ യഥാർത്ഥത്തിൽ ഒരേ സിറ്റി ഉപയോഗിക്കുന്നുതിരിച്ചറിയാത്ത ഈ സിറ്റിയുടെ ഡേറ്റ അവർ ഫേസ്ബുക്കിൽ നിന്നും ഡൌൺലോഡ് ചെയ്യുന്നു ഇവിടെ ശേഖരിച്ച പ്രൊഫൈലുകൾ ഏകദേശം 6000 ഓളം ആയിരുന്നു കണ്ടെത്തിയ മുഖങ്ങൾ ഏകദേശം 5000 ത്തോളം ആയിരുന്നു അതിനാൽ അത് തിരിച്ചറിയപ്പെടാത്തവയിൽ നിന്നും തിരിച്ചറിഞ്ഞ ഡേറ്റയാണ് തിരിച്ചറിഞ്ഞിട്ടില്ലാത്ത ഡാറ്റ ഡേറ്റിംഗ് വെബ്സൈറ്റ് തിരിച്ചറിഞ്ഞ ഡാറ്റ ഫേസ്ബുക്ക് പ്രൊഫൈലുകൾ വീണ്ടും തിരിച്ചറിയൽ എന്നിവയായിരുന്നു സമീപനം 500 മില്യണിലധികം ജോഡികളെ യഥാർത്ഥത്തിൽ താരതമ്യം ചെയ്തു കാരണം ഓരോ ചിത്രവും ഓരോ പ്രൊഫൈലും ആണെങ്കിൽ ഓരോ ഡാറ്റാ സെറ്റും മറ്റേ ഡാറ്റ സെറ്റിലെ ഓരോ ചിത്രങ്ങളുമായി താരതമ്യം ചെയ്തു തിരിച്ചറിയാത്തതിൽ നിന്നും തിരിച്ചറിഞ്ഞതും തിരിച്ചും ആണ് അവർ ചെയ്തത് അവർ ഓരോ ഡേറ്റിംഗ് സൈറ്റ് ചിത്രത്തിനും പിറ്റ്പാറ്റിനും ഏറ്റവും അനുയോജ്യമായ പൊരുത്തം മാത്രമേ ഉപയോഗിച്ചിട്ടുള്ളൂ ടെൻസർഫ്ലോയിലും ഇത് നിങ്ങൾക്ക് പ്രത്യേക മൂല്യങ്ങൾ നൽകുന്നുവെന്ന് എനിക്ക് ഉറപ്പുണ്ട് ഇത് യഥാർത്ഥത്തിൽ ചില ശ്രേണിയിൽ മൂല്യങ്ങൾ ഉൽപാദിപ്പിക്കുന്നു രണ്ട് ചിത്രങ്ങൾ താരതമ്യം ചെയ്യുമ്പോൾ അവർക്ക് ലഭിക്കുന്ന മികച്ച മൂല്യം അവർ ഉപയോഗിക്കുന്നു മെഷീൻ ലേണിംഗ് ടെക്നിക്കുകൾ ഫൂൾ പ്രൂഫ് ആയിരിക്കില്ലെങ്കിൽ അവ 100 ശതമാനം ശരിയായ പ്രവചനം നടത്താൻ പോകുന്നില്ലെങ്കിൽ ചിലപ്പോൾ ഈ ചിത്രങ്ങൾ ഒരേ ഡാറ്റ മാത്രമാകുമ്പോൾ സ്ഥിരീകരിക്കുക അതിനാൽ മെക്കാനിക്കൽ ടർക്കിന്റെ ഭാഗമായ ഉപയോക്താക്കളായ Mturkers ന് അവർ യഥാർത്ഥത്തിൽ ഈ ചിത്രങ്ങൾ കാണിക്കുന്നു ഇത് ഒരു ക്രൌഡ്സോഴ്സ്ഡ് മെക്കാനിസമാണ് ഈ രണ്ട് ചിത്രങ്ങളും ഒരേ ആളുകളാണെന്ന് തിരിച്ചറിയുന്നതുപോലുള്ള ചെറിയ ചുമതലകൽ അവർക്ക് ചെറിയ തോതിൽ പണം നൽകി നിങ്ങൾക്ക് നിർവഹിക്കാം കൂടാതെ ഓരോ ജോഡിയിലും കുറഞ്ഞത് 5 ടർക്കറുകളെങ്കിലും 1 മുതൽ 7 വരെയുള്ള ലിക്കർട്ട് സ്കെയിലിൽ ചിത്രങ്ങൾ റേറ്റ് ചെയ്യാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട് ഒന്നുകൂടി മെക്കാനിക്കൽ ടർക്കറുകൾ എന്താണെന്ന് നോക്കാം മെക്കാനിക്കൽ ടർക്ക് ഒരു ക്രൌഡ്സോഴ്സ്ഡ് മെക്കാനിസമാണ് ഉദാഹരണത്തിന് തന്നിരിക്കുന്ന ഒരു ഇമെയിൽ ഫിഷിംഗ് ആണോ അല്ലയോ എന്ന് തിരിച്ചറിയേണ്ട ഒരു ടാസ്ക് ഉണ്ടെങ്കിൽ ഞാൻ അത് യഥാർത്ഥത്തിൽ Mturkers ന് കാണിക്കും ഞാൻ മെക്കാനിക്കൽ ടർക്കിൽ ടാസ്ക് സൃഷ്ടിക്കുകയും ഉപയോക്താക്കളുടെ ചിത്രം നോക്കി അത് ശരിയാണോ എന്ന് പറയുകയും ചെയ്യും ഫിഷിംഗ് അല്ലെങ്കിൽ ഇത് വ്യാജമാണോ അല്ലയോ എന്ന് പറയാൻ പ്രൊഫൈലും ട്വിറ്ററും നോക്കുന്നതിനായി യഥാർത്ഥത്തിൽ പ്രൊഫൈലിലേക്ക് പോകും അവർ ട്വിറ്ററിലെ പ്രൊഫൈലിലേക്ക് പോകാനുള്ള ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് പ്രൊഫൈൽ നോക്കി അത് നിയമാനുസൃതമാണോ അല്ലയോ എന്ന് തീരുമാനിക്കും അതിനാൽ ഇത് വളരെ ജനപ്രിയമാണ് ഇതുപോലുള്ള നിരവധി സേവനങ്ങൾ ഉണ്ട് ഈ സേവനങ്ങൾ പലതും കൂടിച്ചേർന്ന ക്രൌഡ്ഫ്ലവർ എന്നൊരു സർവീസ് ഉണ്ട് ഇത് വളരെ ജനപ്രിയമാണ് ക്രൌഡ്ഫ്ലവർ ആമസോണിൽ നിന്നുള്ള മെക്കാനിക്കൽ ടർക് പോലെ വളരെ പ്രസിദ്ധമാണ് ഉപയോക്താക്കൾക്ക് കാണിച്ച ഈ രണ്ട് ചിത്രങ്ങളും അവർ എടുത്തു മെക്കാനിക്കൽ ടർക്കറുകൾ യഥാർത്ഥത്തിൽ ചിത്രങ്ങൾ താരതമ്യം ചെയ്ത് തീരുമാനം എടുക്കാൻ ആവശ്യപ്പെടുന്നു അതിനാൽ ഓരോ ജോഡിക്കും കുറഞ്ഞത് 5 ടർക്കറുകളെങ്കിലും കാണും കാരണം അത് നമുക്ക് കൂടുതൽ ആത്മവിശ്വാസം കാണും കൂടുതൽ കൂടുതൽ ആളുകൾ ഒരു ചിത്രം എടുക്കുകയും അത് കസേര ആണെന്ന് പറയുകയും ചെയ്താൽ അത് കസേര ആകാനുള്ള സാധ്യത കൂടുതലാണ് അവർക്ക് കണ്ടെത്താൻ കഴിഞ്ഞത് ലൈക്കററ് സ്കെയിലിൽ ഏകദേശം പൊരുത്തപ്പെടാൻ സാധ്യതയുള്ള 6 3 ശതമാനം ചിത്രങ്ങളുണ്ടെന്നാണ് ഇത് തിരിച്ചറിയുകയും ക്രമരഹിതമായി അവർ പിറ്റ്പാറ്റ് ഉപകരണം ഉപയോഗിച്ച് താരതമ്യം ചെയ്യുകയും മെക്കാനിക്കൽ ടർക്കറുകളിൽ കാണിക്കുകയും ചെയ്തു താരതമ്യം ഉയർന്ന പൊരുത്തങ്ങൾ ഏകദേശം 6 3 ശതമാനവും സാധ്യതയുള്ള പൊരുത്തങ്ങൾ ഏകദേശം 10 5 ശതമാനവുമാണ് ഡേറ്റിംഗ് സൈറ്റിൽ നിന്ന് 10 ൽ 1 എന്ന രീതിയിൽ തിരിച്ചറിയാൻ കഴിയുമെന്ന് അടിസ്ഥാനപരമായി പറയുന്നു കാരണം ഡേറ്റിംഗ് സൈറ്റ് ഒരു തിരിച്ചറിയപ്പെടാത്ത ഡേറ്റ സെറ്റാണ് അതേസമയം ഫേസ്ബുക്ക് എന്നെ തിരിച്ചറിഞ്ഞു അതിനാൽ ഞാൻ കാണുന്ന 10 ചിത്രങ്ങളിലെ ഒരു ചിത്രം കാണുമ്പോഴെല്ലാം ഈ വ്യക്തി ആരാണെന്ന് എനിക്ക് കൃത്യമായി വ്യക്തമായി തിരിച്ചറിയാൻ കഴിയും കാരണം എനിക്ക് ഫേസ്ബുക്ക് ഡേറ്റ ഉണ്ട് മാത്രമല്ല ഇത് ഒരേ നഗരത്തിലാണ് ചെയ്യുന്നത് അതിനാൽ ഒരുപക്ഷെ ശരിയായതും ആയിരിക്കണം മെക്കാനിക്കൽ ടർക്കറുകളും അത് സ്ഥിരീകരിച്ചു അതിനാൽ ഉപയോക്താക്കളെ യഥാർത്ഥത്തിൽ തിരിച്ചറിയാൻ കഴിയുന്നതിന്റെ 10 ശതമാനം തവണ നിങ്ങൾക്ക് കാണാൻ കഴിയും നിങ്ങളോട് ഒരു ചോദ്യം ഈ ചോദ്യം ഫോറത്തിൽ ചില ചർച്ചകൾ ഉണ്ടാക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു നിങ്ങൾ ആക്രമണകാരിയാണെങ്കിൽ നിങ്ങൾക്ക് മെച്ചപ്പെട്ട രീതിയിൽ എന്താണ് ചെയ്യാൻ കഴിയുക നിങ്ങൾ ഈ വിവരങ്ങൾ ഉപയോഗിക്കുകയും കാര്യക്ഷമതയുടെ നിരക്ക് വർദ്ധിപ്പിക്കാൻ എന്തെങ്കിലും ചെയ്യുമോ അതോ ഉപയോക്താവിനെതിരെ എന്തെങ്കിലും ചെയ്യുമോ ഈ വിവരങ്ങൾ ഉപയോഗിക്കുകയാണെങ്കിൽ കാരണം ഒരു ആക്രമണകാരി എന്ന നിലയിൽ നിങ്ങൾ ഈ ശതമാനം കൂടുതൽ ശരിയാക്കുന്നു കാരണം ഇത് 10 ശതമാനമാണ് നിങ്ങൾക്ക് 10 ശതമാനം മാത്രമേ ഹിറ്റ് നിരക്ക് ലഭിക്കൂ അല്ലെങ്കിൽ 1 10 ചിത്രങ്ങൾ മാത്രമാവും ശതമാനം അതേസമയം നിങ്ങൾക്ക് ഒരു മികച്ച ആക്രമണമോ ഭീഷണി സംവിധാനമോ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ശതമാനം കൂടുതൽ വർദ്ധിപ്പിക്കാൻ കഴിയുന്ന കാര്യങ്ങൾ ചെയ്യാൻ കഴിയുംഅതിനാൽ കൂടുതൽ കൂടുതൽ ചിത്രങ്ങൾ യഥാർത്ഥത്തിൽ പുനർ നിർണയിക്കപ്പെടുന്നു അതിനാൽ ഇത് യഥാർത്ഥത്തിൽ മോശമായി ഉപയോഗിക്കാനാകും പരീക്ഷണം 2 ൽ ഞാൻ പറഞ്ഞതുപോലെ 3 കാര്യങ്ങൾ ഉണ്ട് അങ്ങനെ അവർ ചെയ്ത രണ്ടാമത്തെ കാര്യം അവർ ഓഫ്ലൈനിലും ഓൺ ലൈനിലും കണക്റ്റുചെയ്തു എന്നതാണ് ആദ്യത്തേത് അവർ ഓൺലൈനുമായി താരതമ്യം ചെയ്യുന്നു അത് ഡേറ്റിംഗ് വെബ്സൈറ്റും ഫേസ്ബുക്കും ആണ് ഇപ്പോൾ അവർ ചെയ്തത് ഓഫ്ലൈനിലും ഓൺലൈനിലും ചെയ്തു കാമ്പസിലുള്ള വിദ്യാർത്ഥികളെ തിരിച്ചറിയാൻ ഫേസ്ബുക്ക് കോളേജ് നെറ്റ്വർക്ക് ഡേറ്റകളിലൊന്നായ ഫേസ്ബുക്കിൽ നിന്നുള്ള ചിത്രങ്ങൾ ശേഖരിച്ചുഇത് യഥാർത്ഥത്തിൽ ഓഫ്ലൈൻ ചിത്രങ്ങളുമായി താരതമ്യം ചെയ്തു വിദ്യാർത്ഥികൾ യഥാർത്ഥത്തിൽ പഠനത്തിൽ പങ്കെടുക്കുമ്പോൾ എന്താണ് പ്രസ്താവിച്ചത് അതിനാൽ ഇത് പരീക്ഷണ നമ്പർ 2 ആണ് ഫേസ്ബുക്ക് പോലുള്ള ഈ സോഷ്യൽ നെറ്റ്വർക്കുകളിൽ നിന്ന് ചിത്രങ്ങളും ചിത്രങ്ങളും എടുക്കുകയും നെറ്റ്വർക്കുകളിലേക്ക് കണക്റ്റു ചെയ്ത് ആളുകളെ വീണ്ടും തിരിച്ചറിയാൻ സാധിക്കുകയും ചെയ്യുന്ന ചോദ്യങ്ങളുമായി ബന്ധിപ്പിക്കുന്ന സിസിടിവി ഉറവിടം പോലെയുള്ള ഉപയോക്താക്കൾക്ക് പ്രവേശിക്കാൻ കഴിയാത്ത ഡേറ്റയിലേക്ക് എല്ലാം കയറാനും സാധിക്കും അങ്ങനെ അവർ ചെയ്തത് അവർ ഒരു യൂണിവേഴ്സിറ്റിയിൽ ഒരു ബൂത്ത് സ്ഥാപിച്ചു അവർ അടിസ്ഥാനപരമായി നിൽക്കുന്ന പങ്കാളിയുടെ 3 ചിത്രങ്ങൾ എടുക്കുകയും ഈ യൂണിവേഴ്സിറ്റിയിലെ കോളേജ് വിദ്യാർത്ഥി കളുടെ ഡാറ്റ ശേഖരിക്കുകയും ചെയ്തു പങ്കെടുക്കുന്നവർക്കായി 3 ചിത്രങ്ങൾ എടുത്തു 3 ദിവസത്തിനുള്ളിൽ ഡാറ്റ ശേഖരിച്ചു 25 ശതമാനം പ്രൊഫൈലുകൾ അവർ ശേഖരിച്ചു 26262 ചിത്രങ്ങളിൽ നിന്നായി ഏകദേശം 114000 മുഖങ്ങൾ കണ്ടെത്തിഅതിനാൽ ആ യൂണിവേഴ്സിറ്റിയുടെ ഫേസ്ബുക്ക് ഡേറ്റ എന്നത് ഓൺലൈനിലുള്ള ഫേസ്ബുക്കിൽ നിന്ന് ശേഖരിച്ച ഏകദേശം 25000 ആണ് പ്രൊഫൈലുകൾ ഏകദേശം 25000 ആയിരുന്നു ചിത്രങ്ങൾ ഏകദേശം 26000 ആയിരുന്നു മുഖങ്ങൾ ഏകദേശം 114000 ആയിരം ആയിരുന്നു ചുരുക്കിപ്പറഞ്ഞാൽ അല്ലെങ്കിൽ മുഴുവൻ പരീക്ഷണാത്മക സജ്ജീകരണങ്ങളും നോക്കിയാൽ ക്യാമ്പസിൽ നടന്നുകൊണ്ടിരുന്ന വ്യക്തികളുടെ ചിത്രങ്ങൾ പൂരിപ്പിക്കാൻ ആണ് സർവേ ആവശ്യപ്പെട്ടത് അടുത്ത സ്ലൈഡിൽ പഠനത്തിന്റെ പ്രക്രിയ എന്താണെന്ന് നിങ്ങളെ യഥാർത്ഥത്തിൽ കാണിക്കുന്ന ഒരു ചിത്രം എന്റെ കൈയിൽ ഉണ്ട് പക്ഷെ ഇപ്പോൾ ക്യാമ്പസ്സിൽ നടന്നുകൊണ്ടിരിക്കുന്ന വ്യക്തികളുടെ ചിത്രങ്ങളാണ് എടുത്തിരിക്കുന്നത് അവരോട് ഓൺലൈൻ സർവ്വേ പൂരിപ്പിക്കുവാനും ആവശ്യപ്പെട്ടു അവർ സർവേയിൽ പൂരിപ്പിക്കുമ്പോൾ ക്ലൌഡിൽ നിന്നുള്ള ചിത്രങ്ങൾ അതിനോട് പൊരുത്തപ്പെട്ടു കാരണം നിങ്ങൾക്ക് പഠനത്തിൽ പങ്കെടുക്കാൻ താല്പര്യമുണ്ടോ എന്ന് ചോദിക്കുകയാണ് അവർ ചെയ്തത് അവർ യഥാർത്ഥത്തിൽ ഓൺലൈൻ സർവ്വേ പൂരിപ്പിക്കുന്നതിനിടയിൽ ഒരു സിസ്റ്റം ടെക്നിക് ഉപയോഗിച്ച് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ശേഖരിച്ച ചിത്രങ്ങളും ഫേസ്ബുക് ചിത്രങ്ങളും തമ്മിൽ താരതമ്യം ചെയ്തു ആ താരതമ്യം അവരെ കാണിക്കുകയും ചെയ്തു അവസാന പേജിൽ ചിത്രത്തോടൊപ്പമുള്ള ഓപ്ഷനിൽ യഥാർത്ഥത്തിൽ അവരെ ചിത്രം കാണിച്ചിട്ട് ഇത് ഫേസ്ബുക്കിൽ നിന്നും കിട്ടിയതാണെന്ന് അവരോട് പറയുന്നു നിങ്ങൾ ഇതിനോട് യോജിക്കുന്നുണ്ടോ ഒപ്പം തിരിച്ചറിഞ്ഞയാൾ നിർമിച്ച ചിത്രത്തോട് കൂടുതൽ പൊരുത്തമുള്ള ചിത്രം തിരഞ്ഞെടുക്കാൻ പറയുകയും ചെയ്തു അതാണ് പഠന പ്രക്രിയ ദയവായി എങ്ങനെയാണ് പഠനം നടത്തിയതെന്ന് മനസ്സിലാക്കുക ശേഖരിച്ച ചിത്രങ്ങൾ വ്യക്തിഗതമായി ക്യാമ്പസ്സിൽ നടന്ന് എടുത്തതാണ് അതിനുശേഷം സർവേ പൂരിപ്പിക്കാൻ അവരോട് ആവശ്യപ്പെട്ടു സർവേ പൂരിപ്പിക്കുമ്പോൾ ഫേസ്ബുക്കിൽ നിന്നെടുത്ത ചിത്രങ്ങളുമായി ഇത് താരതമ്യം ചെയ്യുന്നു ചിത്രങ്ങൾ തിരികെ ഉപയോക്താവിനെ കാണിച്ചുകൊണ്ട് ഈ ചിത്രങ്ങൾ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ശരിയാണോ എന്ന് ചോദിക്കുന്നു ബാക്ഗ്രൌണ്ടിലെ പ്രോസസ്സ് ഫോർമാറ്റിൽ അതെ കാര്യങ്ങൾ പകർത്തുന്നു അത് ഉപയോക്താക്കളുടെ ചിത്രങ്ങൾ അപ്ലോഡ് ചെയ്യുന്നു ചിത്രങ്ങൾ എടുക്കുന്നത് 1 ആണ് തുടർന്ന് സെർവറിൽ നിന്ന് പ്രതികരണങ്ങൾ വരാൻ തുടങ്ങുന്നു 3 ആമതായി സർവ്വേ ആരംഭിക്കുന്നു നാലാമതായി സർവേ ടോക്കൺ സൃഷ്ടിക്കപ്പെടുന്നു അങ്ങനെ ഈ സർവേ ടോക്കണിലൂടെ നിങ്ങൾക്ക് യഥാർത്ഥത്തിൽ ഇമേജുകൾ താരതമ്യം ചെയ്ത് തിരികെ കൊണ്ടുവരുമെന്ന് പറയാൻ കഴിയും 5 ആമതായി കസ്റ്റം സർവേ ടോക്കണുകൾ നോക്കി സർവ്വേ പൂരിപ്പിക്കാൻ ഉപയോക്താവിനെ അയക്കും 6 ആമതായി ഫേസ് റെക്കഗ്നിഷൻ റിസൾട്ട് നിർമിക്കുന്നു തുടർന്ന് സർവേ ഫലങ്ങൾ യഥാർത്ഥത്തിൽ ഉപയോഗിക്കുന്ന രണ്ട് ചിത്രങ്ങളും 7 ആമതായി നൽകിയിരിക്കുന്നു അതിനാൽ ഇത് പഠന പ്രക്രിയയാണ് വളരെ ബുദ്ധിമുട്ടുള്ളതല്ല വളരെ സങ്കീർണ്ണമായ പഠനമല്ല പക്ഷേ ഇത് യഥാർത്ഥത്തിൽ വളരെ രസകരമായ ചില വിവരങ്ങൾ ശേഖരിക്കുന്നു വിവരശേഖരണത്തിൽ നിന്ന് അവർക്ക് കിട്ടിയ റിസൾട്ട് ആണിത് ഉപയോക്താവിനെ സ്വയം വീണ്ടും തിരിച്ചറിയുന്നതിനായി ഉള്ള ചിത്രമാണ് ഇടതുവശത്തെ ചിത്രം ഉപയോക്താവ് യഥാർത്ഥത്തിൽ പഠനത്തിൽ പങ്കെടുക്കുമ്പോൾ അവർ എടുത്ത ചിത്രമാണ് ഇടതുവശത്തുള്ള ചിത്രം അതിനാൽ ഉപയോക്താവ് ലോഗിൻ ചെയ്യുമ്പോൾ അവർക്ക് ഇടതുവശത്തുള്ള ചിത്രം ഉപയോഗിക്കാം ആ ചിത്രം ഉപയോഗിച്ച് വലതുവശത്തുള്ള ചിത്രം അവർക്ക് യഥാർത്ഥത്തിൽ തിരിച്ചറിയാനാവും ഈ ഉപയോക്താവിനെ യഥാർത്ഥത്തിൽ തിരച്ചറിഞ്ഞത് അവിടെയാണ് അതിനാൽ അതാണ് ഔട്ട്പുട്ട് സർവെയിലുള്ള ചിത്രം ഇൻപുട്ടും പ്രത്യേക ചിത്രങ്ങളിൽ ഈ വ്യക്തിയെ വീണ്ടും തിരിച്ചറിഞ്ഞ ഫെയ്സ്ബുക്കിൽ നിന്നുള്ള ചിത്രം ഔട്ട്പുട്ടും ആണ് ഫേസ്ബുക്കുമായി താരതമ്യം ചെയ്യുമ്പോൾ ഇത് യഥാർത്ഥത്തിൽ മനോഹരമായി ചിത്രങ്ങൾ വെളിപ്പെടുത്തും പഠനത്തിൽ 98 വിദ്യാർത്ഥികൾ പങ്കെടുത്തു പഠനത്തിൽ പങ്കെടുത്ത 98 വിദ്യാർത്ഥികളും ഇത് ശേഖരിച്ചത് യൂണിവേഴ്സിറ്റി സെറ്റപ്പിൽ നിന്ന് ആണ് കൂടാതെ എല്ലാവർക്കും ഫേസ്ബുക്ക് അക്കൌണ്ടുകളും ഉണ്ടായിരുന്നു പങ്കെടുത്തവരിൽ 38 ശതമാനം പേരും ഈ ചിത്രം എടുത്ത ശരിയായ ഫേസ്ബുക്ക് പ്രൊഫൈലുകളുമായി പൊരുത്തപ്പെട്ടു പഠനത്തിലെ ചിത്രങ്ങൾ എടുത്ത 38 ശതമാനം ആളുകളുടെയും ഫേസ്ബുക്ക് പ്രൊഫൈലും അവരുടെ അക്കൌണ്ടും കൃത്യമായി പൊരുത്തപ്പെട്ടു ഉപയോക്താവ് സ്ഥീതീകരിക്കുന്നതിനായി അവരുടെ വിവരങ്ങൾ യഥാർത്ഥത്തിൽ തിരികെ കൊണ്ടുവരുന്നു രസകരമെന്നു പറയട്ടെ ഫെയ്സ്ബുക്കിൽ ചിത്രം ഇല്ലെന്ന് സൂചിപ്പിച്ച ഒരു പങ്കാളി ഉണ്ടായിരുന്നു യഥാർത്ഥത്തിൽ ആ പ്രത്യേക വ്യക്തിയുടെ വിവരങ്ങൾ ആ പ്രത്യേക പങ്കാളികളുടെ വിവരങ്ങളും തിരികെ കൊണ്ടു വന്നു തീർച്ചയായും ഈ താരതമ്യം ചെയ്യാൻ വളരെ കുറച്ച് സമയം മാത്രമേ എടുത്തുള്ളൂ യൂണിവേഴ്സിറ്റി കാമ്പസിൽ നിന്ന് ചിത്രമെടുത്ത 38 ശതമാനം ഉപയോക്താക്കളെ ഫേസ്ബുക്ക് പ്രൊഫൈലിൽ നിന്ന് തിരിച്ചറിഞ്ഞ പഠനത്തിന് അർത്ഥമുണ്ടെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു പരീക്ഷണം 3 രസകരമാണ് കാരണം സോഷ്യൽ സെക്യൂരിറ്റി നമ്പർ പോലുള്ള വിവരങ്ങൾ ഉപയോഗിച്ച് വ്യക്തിപരമായി തിരിച്ചറിയാൻ കഴിയുന്ന പരീക്ഷണങ്ങൾ നടത്താൻ 1 2 എന്നിവയിൽ നിന്നുള്ള പരീക്ഷണ ധാരണകൾ ഉപയോഗിക്കാൻ അവർ ശരിക്കും ശ്രമിച്ചു ഈ 3 ആം പരീക്ഷണത്തിൽ പൊതു ഡാറ്റയിൽ നിന്ന് സാമൂഹിക സുരക്ഷാ നമ്പർ പ്രവചിക്കാൻ അവർ ആഗ്രഹിച്ചു അതിനാൽ 1 2 പരീക്ഷണങ്ങളിൽ നിന്ന് ശേഖരിച്ച മുഖങ്ങളും ഫേസ്ബുക്ക് ഡാറ്റയും അവർ പൊതു സുരക്ഷാ ഡാറ്റ ഉപയോഗിച്ച് സോഷ്യൽ സെക്യൂരിറ്റി നമ്പർ പ്രവചിക്കാൻ ഉപയോഗിച്ചു വിഷയങ്ങളുടെ ആദ്യ 5 സാമൂഹ്യ സുരക്ഷാ സംഖ്യകളുടെ 27 ശതമാനം നാല് ശ്രമങ്ങളിലൂടെ തിരിച്ചറിഞ്ഞു അടിസ്ഥാനപരമായി ഇതിന്റെ അർഥം ഓരോ തവണയും ഞാൻ ഡാറ്റാബേസിൽ നിന്ന് ഒരു മുഖം എടുക്കുമ്പോൾ സോഷ്യൽ സെക്യൂരിറ്റി നമ്പറിന്റെ ആദ്യ 5 അക്കങ്ങൾ എനിക്ക് 27 ശതമാനം തവണ തിരിച്ചറിയാൻ കഴിഞ്ഞു എന്നാണ് ആ വെളിപ്പെടുത്തൽ അതൊരു നല്ല സൂചനയല്ല 27 ശതമാനം വിഷയങ്ങൾക്ക് അവരുടെ അഞ്ച് SSN അക്കങ്ങൾ കണ്ടെത്താൻ കഴിഞ്ഞു അതിനാൽ ഇത് മൂന്നാമത്തെ പരീക്ഷണമാണ് കൂടാതെ മൂന്നാമത്തെ പരീക്ഷണം ഞാൻ അൽപ്പം ലളിതമാക്കുന്നു കാരണം ഇത് മൊത്തത്തിൽ രസകരമായ കാര്യങ്ങളാണ് ചിത്രങ്ങൾ തിരിച്ചറിയാത്ത ഡാറ്റ സെറ്റുകൾ തിരിച്ചറിഞ്ഞ ഡാറ്റ സെറ്റ് എന്നിവ അവസാനം അവർക്ക് സോഷ്യൽ സെക്യൂരിറ്റി അംഗവുമായി ബന്ധിപ്പിക്കാൻ കഴിഞ്ഞു രസകരമെന്നു പറയട്ടെ ഇന്ത്യയിലെ ആധാർ നമ്പറും മറ്റ് വ്യക്തിഗത വിശദാംശങ്ങളും തിരിച്ചറിയുന്നതിനായി ഇത്തരത്തിലുള്ള വിദ്യകൾ എങ്ങനെ പ്രയോഗിക്കാമെന്ന് നിങ്ങൾ ചിന്തിക്കുമെന്ന് എനിക്ക് ഉറപ്പുണ്ട് പഠനം നടന്നത് യുഎസിലാണ് അതിനാൽ നിങ്ങൾ ഈ പഠനം ആവർത്തിക്കുകയും ആധാർ നമ്പറോ മറ്റ് ഇന്ത്യൻ പൌരന്മാരുടെ വിശദാംശങ്ങളോ കണ്ടെത്തുകയോ ചെയ്താൽ അത് കാണാൻ വളരെ രസകരമായിരിക്കും എന്തെങ്കിലും ആശയങ്ങൾ ഉണ്ടെങ്കിൽ ഇന്ത്യയിൽ എങ്ങനെ പഠനം നടത്താം എന്ന കാര്യത്തിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ചോദ്യങ്ങളുണ്ടെങ്കിൽ അതിനെക്കുറിച്ച് ഫോറത്തിൽ സംസാരിക്കുന്നത് രസകരമായിരിക്കും ഞാൻ ഇപ്പോൾ ചർച്ച ചെയ്ത പഠനത്തിനുള്ള സൂചനകൾ ഇതാ ഇതോടുകൂടി യഥാർത്ഥത്തിൽ ഞാൻ വീക് 4 1 പൂർത്തിയാക്കും ഞങ്ങൾ എന്താണ് സംസാരിക്കുന്നതെന്ന് നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു ഓൺലൈൻ സോഷ്യൽ നെറ്റ്വർക്കുകളിലെ പ്രൈവസി പ്രശ്നങ്ങളെക്കുറിച്ച് പ്രത്യേകിച്ചും സോഷ്യൽ നെറ്റ്വർക്സിൽ അപ്ലോഡ് ചെയ്യുന്ന ചിത്രങ്ങൾ ഉപയോഗിച്ച് ഇമേജുകൾ ശേഖരിക്കുന്നതിലും മുഖം ഉപയോഗിച്ച് ഉപയോക്താക്കളെ തിരിച്ചറിയുന്നതിലും ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതിനെക്കുറിച്ചും നമ്മൾ പറഞ്ഞു